നമ്മുടെ മുമ്പത്തെ സെഷനിൽ നമ്മൾ ബജറ്റിംഗും ബജറ്റ് നിയന്ത്രണവും സംബന്ധിച്ച ചർച്ച തുടങ്ങിയിരുന്നു പൊതുവേ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ബജറ്റ് ഒരു ഏകദേശ പ്രസ്താവനയാണ് പക്ഷെ അത് മാത്രമല്ല അത് തയ്യാറാക്കിയ കാലയളവിന് മുമ്പാണ് ഇത് തയ്യാറാക്കുന്നത് ഇത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റാണ് അത് ചില ഉദ്ദേശ്യങ്ങളോ ലക്ഷ്യങ്ങളോ നേടാൻ തയ്യാറാക്കിയതാണ് അതിനാൽ ആ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ഒരു നയം തയ്യാറാക്കുകയും ക്വാണ്ടിറ്റേറ്റീവ് ടെം അടിസ്ഥാനത്തിൽ ആ നയം ബജറ്റിൽ നിർമ്മിക്കുകയും ചെയ്യുന്നു വിവിധ തരത്തിലുള്ള ബജറ്റുകളും ഞങ്ങൾ മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സമയമനുസരിച്ച് ഒരാൾക്ക് ഇതിനെ ദീർഘകാല ഹ്രസ്വകാല കറന്റ് ബജറ്റ് എന്നിങ്ങനെ തരംതിരിക്കാം അല്ലെങ്കിൽ ഫംഗ്ഷണൽ മാസ്റ്റേഴ്സ് ബജറ്റ് എന്നിവ പ്രകാരം വർഗ്ഗീകരിക്കാം അതിനാൽ ഫംഗ്ഷണൽ ബജറ്റിൽ ഞങ്ങൾ ഓരോ ഫംഗ്ഷനും ബജറ്റുകൾ തയ്യാറാക്കുകയും ആ ബജറ്റുകളെല്ലാം ഒരു മാസ്റ്റർ ബജറ്റിന്റെ രൂപത്തിൽ ഏകീകരിക്കുകയും സംഗ്രഹിക്കുകയും ചെയ്യുന്നു സീറോ ബേസ് ബജറ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക തരം ബജറ്റും ഞങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ അത് ഓർക്കുന്നുണ്ടോ സീറോ ബേസ് ബജറ്റ് അടിസ്ഥാനപരമായി ആദ്യം മുതൽ തയ്യാറാക്കിയ ബജറ്റാണ് പരമ്പരാഗത ബജറ്റിംഗ് സമ്പ്രദായം അവസാന കാലയളവിലെ ബജറ്റിനെയും യഥാർത്ഥത്തെയും ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഈ വ്യത്യസ്ത സംവിധാനം രൂപീകരിച്ചു സാധാരണഗതിയിൽ ഒരു ബജറ്റ് കഴിഞ്ഞ വർഷത്തെ ബജറ്റും കഴിഞ്ഞ വർഷത്തെ യഥാർത്ഥ സ്ഥിതിയും അടിസ്ഥാനമാക്കിയുള്ളതാണ് നിലവിലെ ബജറ്റ് നൽകുന്ന നിലവിലെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നു എന്നാൽ സീറോ ബേസ് ബജറ്റിന്റെ കാര്യത്തിൽ അതിനെ ആദ്യം മുതൽ ബജറ്റിംഗ് എന്ന് വിളിക്കുന്നു അതിനാൽ കഴിഞ്ഞ വർഷത്തെ ബജറ്റ് യാന്ത്രികമായി ആധികാരികമായി ഞങ്ങൾ പരിഗണിക്കുന്നില്ല ഓരോ ചെലവും സ്വയം വിലയിരുത്തേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ നിലവിലെ ബജറ്റിൽ അത് ചേർക്കാൻ കഴിയൂ ഈ അടിസ്ഥാന ആശയങ്ങളെല്ലാം ഞങ്ങൾ ബജറ്റിൽ ചർച്ച ചെയ്തതായി നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ സെഷനിൽ വിവിധ തരത്തിലുള്ള ഫംഗ്ഷണൽ ബജറ്റ് ഉൾപ്പെടുന്ന കേസുകളിൽ ഞങ്ങൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കും അപ്പോൾ എന്താണ് ഒരു ഫംഗ്ഷണൽ ബജറ്റ് അല്ലെങ്കിൽ അതിനുള്ള ഒരു മാസ്റ്റർ ബജറ്റ് എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ മാസ്റ്റർ ബജറ്റ് ഒരു ഏകീകൃത P ആൻഡ് L അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ രൂപത്തിലാണെന്ന് നിങ്ങൾക്കറിയാം വിഭവങ്ങൾ ഏകോപിപ്പിക്കുകയും രണ്ട് വ്യത്യസ്ത ഫംഗ്ഷനുകൾ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു ഏകോപിത ശ്രമമാണിത് അന്തിമഫലം ഒരു മാസ്റ്റർ ബജറ്റാണ് ഓരോ ഫംഗ്ഷനും ഞങ്ങൾ ഒരു പ്രത്യേക ബജറ്റ് ഉണ്ടാക്കുന്നു ആ ബജറ്റുകളെ ഫംഗ്ഷണൽ ബജറ്റ് എന്ന് വിളിക്കുന്നു അപ്പോൾ ആ ബജറ്റുകൾ എന്തൊക്കെയാണ് വിവിധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് 4 5 ഫംഗ്ഷണൽ ബജറ്റുകൾ പറയാമോ സ്ക്രീനിൽ ഒരു ബജറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അതാണ് മെറ്റീരിയൽ പർച്ചെയ്സ് ബജറ്റ് എന്നാൽ അത് പിന്നീട് വരുന്നു സാധാരണയായി ഏതൊരു ബിസിനസ്സ് പ്രവർത്തനവും ഡിമാൻഡിൽ തുടങ്ങുന്നു അതിനാൽ നമ്മൾ എത്രത്തോളം വിൽക്കാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ച് മാർക്കറ്റ് ഗവേഷണം നടത്തുകയും സെയിൽസ് ബജറ്റ് തയ്യാറാക്കുകയും വേണം സെയിൽസ് ബജറ്റിനെ ആശ്രയിച്ച് ഞങ്ങൾ ഉല്പാദിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ സെയിൽസിൽ നിന്ന് നമ്മൾ പ്രൊഡക്ഷൻ ബജറ്റ് തയ്യാറാക്കുന്നു ഉൽപാദനത്തെ അടിസ്ഥാനമാക്കി നമുക്ക് അസംസ്കൃത വസ്തുക്കൾ ആവശ്യമാണ് അതിനാൽ നമ്മൾ ഒരു അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗ ബജറ്റ് തയ്യാറാക്കുന്നു നാം ഉപഭോഗം ചെയ്യേണ്ടതിനാൽ നാം വാങ്ങേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾ അസംസ്കൃത വസ്തുക്കൾ പർച്ചെയ്സ് ബജറ്റ് തയ്യാറാക്കുന്നു നിങ്ങൾക്ക് മനസിലാകുന്നുണ്ടോ ഇങ്ങനെയാണ് ഒന്നിനുപുറകെ ഒന്നായി ഫംഗ്ഷണൽ ബജറ്റുകൾ തയ്യാറാക്കുന്നത് അതുപോലെ ഉൽപാദനത്തിനും നമുക്ക് മനുഷ്യശക്തി ആവശ്യമാണ് അതിനാൽ നമ്മൾ മാനവശേഷി ബജറ്റ് തയ്യാറാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് മനുഷ്യശക്തി ആവശ്യമുള്ളതിനാൽ ഞങ്ങൾ റിക്രൂട്ട് ചെയ്യേണ്ടതുണ്ട് ഒരുപക്ഷേ ഞങ്ങൾ ഒരു റിക്രൂട്ട്മെന്റ് ബജറ്റ് തയ്യാറാക്കേണ്ടതുണ്ട് ഇനി നമ്മൾ ഫിക്സഡ് ഓവർഹെഡ് ബജറ്റ് വേരിയബിൾ ഓവർഹെഡ്സ് ബജറ്റ് ആർ ആൻഡ് ഡി ബജറ്റ് തുടങ്ങിയവ ഉണ്ടാക്കണം ഇവയെല്ലാം വ്യത്യസ്ത തരം മാസ്റ്റേഴ്സ് ബജറ്റ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഇത്രയധികം ആശയപരമായ ധാരണയോടെ നമുക്ക് ബജറ്റുകൾ തയ്യാറാക്കുന്നതിനുള്ള കേസുകളിലേക്ക് പോകാം ഇപ്പോൾ മെറ്റീരിയൽ വാങ്ങുമ്പോൾ ചിത്രീകരണം 1 നിങ്ങളുടെ മുന്നിലുണ്ട് ബജറ്റ് വിൽപ്പന ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗം ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നിവയെക്കുറിച്ച് ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള ബജറ്റ് ഞങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട് അതിനാൽ അതിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രിന്റൌട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രിന്റൌട്ടിൽ നിന്ന് എടുത്ത് നിങ്ങളുടെ സ്വന്തം നോട്ട്ബുക്കിൽ തയ്യാറാക്കുകയും ചെയ്യാം ഇപ്പോൾ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു ബജറ്റ് തയ്യാറാക്കാൻ കഴിയുമോ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നമുക്ക് വിൽപ്പനയിൽ നിന്ന് ആരംഭിക്കാം അതിനാൽ ബജറ്റ് വിൽപ്പന 500 ആണെന്ന് നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്കും നമുക്കറിയാം സ്റ്റോക്കിനെക്കുറിച്ച് നൽകിയിരിക്കുന്ന വിവരങ്ങളനുസരിച്ചു അസംസ്കൃത വസ്തുക്കളുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എ ബി എന്നിവയ്ക്ക് യഥാക്രമം 5000 യൂണിറ്റും 3500 യൂണിറ്റും ആണെന്നും 1000 ക്ലോസിംഗ് സ്റ്റോക്ക് നിലനിർത്തേണ്ടതുണ്ടെന്നും നമുക്കറിയാം അതിനാൽ നമുക്ക് ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് അറിയാം പൂർത്തിയായ സാധനങ്ങളുടെ ക്ലോസിംഗ് സ്റ്റോക്കും നമുക്കറിയാം അതിനാൽ ആദ്യം നമുക്ക് പ്രൊഡക്ഷൻ ബജറ്റ് ഉണ്ടാക്കാം നമുക്ക് വാമൊഴിയായി ശ്രമിക്കാം ഇത് വളരെ ലളിതമാണ് വിൽക്കാൻ നമുക്ക് 5000 യൂണിറ്റുകൾ വേണം നമുക്ക് ഇതിനകം 500 യൂണിറ്റ്സ് ഉണ്ട് നമുക്ക് 1000 പൂർത്തിയായ സാധനങ്ങളുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആവശ്യമാണ് അപ്പോൾ നമുക്ക് എത്ര യൂണിറ്റുകൾ തയ്യാറാക്കണം അല്ലെങ്കിൽ നിർമ്മിക്കണം അതിനാൽ 5000 മൈനസ് 500 കാരണം അവ ഇതിനകം പ്ലസ് 1000 ആണ് അതിനാൽ ഉൽപ്പാദന ആവശ്യകത 5500 ആയിരിക്കും നിങ്ങൾക്ക് മനസിലാകുന്നെന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ നിങ്ങൾക്ക് പരിഹാരം കാണിച്ചുതരാം പക്ഷേ അത് തനിയെ മനസിലാക്കി ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ 5500 യൂണിറ്റുകളുടെ ഈ ഉൽപ്പാദന ആവശ്യകതയെ അടിസ്ഥാനമാക്കി എ ബി എന്നിവയുടെ ഉപഭോഗം നോക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അസംസ്കൃത വസ്തുക്കളുടെ ആവശ്യകതയിലേക്ക് പോകാം തുടർന്ന് അസംസ്കൃത വസ്തുക്കൾ വാങ്ങാം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻ കാണിച്ചുതരാം അതിനാൽ ബജറ്റ് വിൽപ്പന 5000 ആണ് ആവശ്യമുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് 1000 അതായത് പൂർത്തിയായ സാധനങ്ങളുടെ ആകെ ആവശ്യകത 6000 മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്കാണ് കാരണം ആ 500 യൂണിറ്റുകൾ ഇതിനകം തന്നെ ഉണ്ട് അതായത് ഉൽപ്പാദിപ്പിക്കേണ്ട യൂണിറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ പ്രൊഡക്ഷൻ യൂണിറ്റ് ബജറ്റ് എന്ന് വിളിക്കാം അത് 5500 ആകുന്നു ഇപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി ഞങ്ങൾ അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗം കണക്കാക്കി ഇപ്പോൾ 1 യൂണിറ്റ് ഫിനിഷ്ഡ് ഗുഡ്സിന് എ ബി എന്നിവയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ യഥാക്രമം 12 ഉം 10 ഉം ആണെന്ന് നൽകിയിരിക്കുന്നു അതിനാൽ യൂണിറ്റ് A 5500 X 12 ആയും യൂണിറ്റ് ബി 5500 X 10 ആയും അതിനാൽ അസംസ്കൃത വസ്തുക്കളുടെ A യൂണിറ്റുകൾ 66000 ഉം B 55000 ഉം ആണ് 5000 3500 എന്നിവയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതിനകം ഉണ്ട് അത് ഞങ്ങൾ കുറയ്ക്കും ഞങ്ങൾ പരിപാലിക്കേണ്ട ക്ലോസിംഗ് സ്റ്റോക്ക് ചേർക്കും അതിനാൽ യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ 62000 52500 എന്നിവയുടെ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള ബജറ്റ് ഞങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾക്ക് എന്നെ മനസിലാകുന്നു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇത് യൂണിറ്റുകളിൽ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള ബജറ്റാണ് അവർ നിങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കളുടെ വില തരുകയാണെങ്കിൽ നമുക്ക് ഗുണിച്ച് അത് രൂപായിലും ലഭിക്കും എന്നാൽ ഇപ്പോൾ നൽകുന്നത് ഇത്രമാത്രം അതിനാൽ ഇതാണ് നമുക്കുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തതയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്ട്രിബൂട് ചെയ്ത കേസിലേക്ക് പോകാം പതിവുപോലെ ദയവായി പ്രിന്റൌട്ടിനൊപ്പം ഒരു പ്രിന്റൌട്ട് സെറ്റ് എടുക്കുക തുടർന്ന് അടുത്ത കേസ് ശരിയാക്കാൻ ഞങ്ങൾ ശ്രമിക്കും അതിനാൽ നിങ്ങൾ അതിന് തയ്യാറാണ് ദയവായി ഇത് ശ്രദ്ധാപൂർവ്വം വായിക്കുക ഗൌരി ലിമിറ്റഡ് മൈക്രോകമ്പ്യൂട്ടർ മോണിറ്ററുകൾക്കായി ഉയർന്ന നിലവാരമുള്ള ഗ്ലെയർ ഫിൽട്ടറുകൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ജോൺ ക്രാവൻ കൺട്രോളർ John Craven the controller ആണ് ഇത് തയ്യാറാക്കുന്നതിനുള്ള ഉത്തരവാദിത്വമുള്ളത് ഇതായിരിക്കണം ഗൌരി ഗൌരിയുടെ മാസ്റ്റർ ബജറ്റ് 2020 ലേക്കുള്ള ഇനിപ്പറയുന്ന ഡാറ്റ അസംബിൾ ചെയ്തു തുടർന്ന് അവർ ജോലിച്ചെലവും മറ്റ് കാര്യങ്ങളും സംബന്ധിച്ച കുറച്ച് ഡാറ്റ നൽകി ഇപ്പോൾ ഈ ഗൌരി 2019 ഡിസംബർ 31 ന് ഇൻവെന്ററിയിൽ 1000 ഗ്ലെയർ ഫിൽട്ടറുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ തുടർന്നുള്ള മാസത്തെ പ്രൊജക്റ്റ് വിൽപ്പനയുടെ 50 ശതമാനം ഇൻവെന്ററിയിൽ കൊണ്ടുപോകുന്ന നയമുണ്ട് ഞങ്ങൾക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് അറിയാം കൂടാതെ ക്ലോസിംഗ് സ്റ്റോക്ക് നിലനിർത്തുന്നതിനുള്ള നയവും ഞങ്ങൾക്കറിയാം ഇപ്പോൾ അവർ അടുത്ത ഒരു മാസത്തെ പ്രൊജക്റ്റ് ചെയ്ത വിൽപ്പനയെയും വിൽപ്പന വിലയെയും നേരിട്ടുള്ള ജോലി സമയം മുതലായവയെയും കുറിച്ചുള്ള ഡാറ്റ നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ 2020 ആദ്യ പാദത്തിലേക്കുള്ള പ്രതിമാസ ബജറ്റ് തയ്യാറാക്കേണ്ടതുണ്ട് അതിനാൽ ഈ ബജറ്റുകളെല്ലാം ആവശ്യമാണ് ഉൽപ്പാദന യൂണിറ്റുകളുടെ ബജറ്റ് നേരിട്ടുള്ള ലേബർ ബജറ്റ് നേരിട്ടുള്ള മെറ്റീരിയൽ ചെലവ് ബജറ്റ് വിൽപ്പന ബജറ്റ് കൂടാതെ ഈ മാസങ്ങളിൽ ഓരോന്നിനും ബഡ്ജറ്റ് ചെയ്ത സംഭാവന മാർജിനിനെക്കുറിച്ച് ഞങ്ങൾ ചില കണക്കുകൂട്ടലുകൾ നടത്തേണ്ടതുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകാം അൽപ്പം ചിന്തിക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇത് പൂർണ്ണമായും വിൽപ്പനയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വിൽപ്പനയെ അടിസ്ഥാനമാക്കി സ്റ്റോക്കിന്റെ എസ്റ്റിമേറ്റ് അടിസ്ഥാനമാക്കി യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉൽപാദന ബജറ്റ് കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ വിൽപ്പനയെ അടിസ്ഥാനമാക്കി ഞങ്ങൾ ഉൽപാദനത്തിലേക്ക് പോകുന്നു തുടർന്ന് ഉൽപ്പാദനത്തെ അടിസ്ഥാനമാക്കി അവർ തൊഴിൽ ആവശ്യകതയും നേരിട്ടുള്ള മെറ്റീരിയൽ ആവശ്യകതയും നൽകിയതിനാൽ നേരിട്ടുള്ള തൊഴിലാളിയും നേരിട്ടുള്ള മെറ്റീരിയലും കണക്കാക്കുകയും അവസാനം ഞങ്ങൾ കോണ്ട്രിബൂഷൻ മാർജിൻ കണക്കാക്കാൻ പോകുകയും ചെയ്യും ശരി നിങ്ങൾക്ക് എന്നോടൊപ്പം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഇതാണ് ഘടന ഒന്നാമതായി വിൽപ്പനയിൽ നിന്ന് ആരംഭിച്ച് യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഉൽപാദന ബജറ്റ് കണക്കാക്കാൻ ശ്രമിക്കുക ആദ്യ പാദം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മാത്രം ഉണ്ടാക്കും ഇവിടെ നൽകിയിരിക്കുന്ന ഏപ്രിലിലെ ഡാറ്റ അത്തരത്തിലുള്ളതല്ല എന്നാൽ ഇൻവെന്ററി ആവശ്യങ്ങൾക്കായി ഇത് ആവശ്യമാണ് ഇപ്പോൾ വിൽപ്പനയിലേക്ക് നിങ്ങൾ ക്ലോസിംഗ് അല്ലെങ്കിൽ അവസാനിക്കുന്ന ഇൻവെന്ററി ചേർക്കുക അപ്പോൾ ആവശ്യമായ മൊത്തം യൂണിറ്റുകൾ നിങ്ങൾക്ക് അറിയാം അതിനായി നിങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ട യൂണിറ്റുകൾ നൽകുന്ന ഓപ്പണിംഗ് ഇൻവെന്ററി കുറയ്ക്കേണ്ടതുണ്ട് അത് നിങ്ങളുടെ ഉൽപ്പാദന ബജറ്റ് ആണ് ഇപ്പോൾ ജനുവരിയിൽ അവസാനിക്കുന്ന ഇൻവെന്ററി കണക്കാക്കുക അത് 12000 ആണ് നിങ്ങൾക്ക് എങ്ങനെ 12000 ലഭിച്ചു നിങ്ങൾ അത് ഓർക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകും തുടർന്നുള്ള മാസങ്ങളിൽ പ്രതീക്ഷിക്കുന്ന വിൽപനയുടെ 50 ശതമാനം വഹിക്കുക എന്ന നയമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിനാൽ ഫെബ്രുവരിയിലെ വിൽപ്പന 24000 ആണെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ അതിന്റെ 50 ശതമാനം ജനുവരിയിൽ തയ്യാറാകണം മനസ്സിലായോ കാരണം അവരുടെ ഡെലിവറി ഷെഡ്യൂളുകളിൽ ഒരു തടസ്സവും കമ്പനി ആഗ്രഹിക്കുന്നില്ല അതിനാൽ അടുത്ത മാസത്തെ വിൽപ്പനയുടെ പകുതിയും നിലവിലെ മാസത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും ഇൻവെന്ററിയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഫെബ്രുവരിയിലെ ക്ലോസിംഗ് ഇൻവെന്ററി എന്തായിരിക്കും 16000 ന്റെ പകുതി ശരിയാണോ ഇപ്പോൾ ഞങ്ങൾക്ക് ഏപ്രിലിലെ ഇൻവെന്ററി ആവശ്യമാണ് അതായത് ഏപ്രിൽ മാസത്തെ വിൽപ്പന 18 ആണ് അതിനെ അടിസ്ഥാനമാക്കി മാർച്ചിലെ ഇൻവെന്ററി കണക്കാക്കുക അപ്പോൾ ഇത് 9 ആണ് നിങ്ങൾക്ക് എന്നെ കിട്ടുന്നുണ്ടോ അതിനാൽ ഇതാണ് ക്ലോസിംഗ് ഇൻവെന്ററി ഇപ്പോൾ എന്താണ് ഒരു ഓപ്പണിംഗ് ഇൻവെന്ററി 10000 യൂണിറ്റ് ഓപ്പണിംഗ് ഇൻവെന്ററി ഉണ്ടെന്ന് ഇതിനകം നൽകിയിട്ടുണ്ട് മനസ്സിലായോ ഇപ്പോൾ എത്ര യൂണിറ്റുകൾ നിർമ്മിക്കണം അവർ 22000 ആണ് അതിനാൽ 20 പ്ലസ് 12 അർത്ഥമാക്കുന്നത് 32 മൈനസ് 10 ആണ് നിങ്ങൾക്ക് 22 ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ ഉൽപ്പാദന യൂണിറ്റുകളുടെ ബജറ്റ് നിർമ്മിക്കുന്നത് ഇങ്ങനെയാണ് മിക്കവാറും എല്ലാ പ്രശ്നങ്ങളിലും അത് വിൽപ്പനയിൽ നിന്ന് ആരംഭിക്കും തുടർന്ന് ഉൽപാദനത്തിലേക്ക് പോകും തുടർന്ന് മെറ്റീരിയൽ ലേബർ തുടങ്ങി ഓരോ ഇൻപുട്ടുകളിലേക്കും ഞങ്ങൾ പോകും അതിനാൽ ഫെബ്രുവരിയിലും ഇത് തയ്യാറാക്കുക ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് എത്ര ബജറ്റ് ലഭിക്കും ഇപ്പോൾ 12000 എന്നത് ഒരു ഓപ്പണിംഗ് ഇൻവെന്ററിയാണ് കാരണം അവസാന തവണ ക്ലോസിംഗ് ഓപ്പണിംഗ് ആകും നിങ്ങൾ 12 എടുത്താൽ ഉത്പാദിപ്പിക്കേണ്ട യൂണിറ്റുകൾ 20 ആണ് മാർച്ചിലെ അതേ രീതിയിൽ ഓപ്പണിംഗ് ഇൻവെന്ററി ഇതാണ് 8000 ആണ് 8000 അടിസ്ഥാനമാക്കി ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾ 17000 ഇപ്പോൾ ഞങ്ങൾ ക്വാർട്ടറിൽ അതിന്റെ അടുത്തെത്തിയിരിക്കുന്നു ക്വാർട്ടറിൽ അവസാനിക്കുന്ന ഇൻവെന്ററി മാർച്ചിലെ ഇൻവെന്ററിയാണ് അത് 9000 ആണ് ജനുവരിയിൽ ഓപ്പണിംഗ് ഇൻവെന്ററി 10000 ആണ് അതായത് ഈ ക്വാർട്ടറിൽ മൊത്തം ഉൽപ്പാദനം 59 ആണ് ഇരുവശവും നിങ്ങൾക്ക് ക്രോസ്സ് ചെക്ക് ചെയ്യാം 60 9 10 ആണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം അത് നേടുക നിങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൂടി എടുത്താൽ നിങ്ങൾക്ക് 59 ലഭിക്കും ഇതാണ് ഉൽപ്പാദന യൂണിറ്റുകളുടെ ബജറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ദയവായി തൊഴിൽ ചെലവിലേക്ക് പോകുക ഡയറക്റ്റ് ലേബർ ബജറ്റ് തയ്യാറാക്കുക ആദ്യം മണിക്കൂറുകളിലും പിന്നീട് രൂപയിലും അതിനാൽ നിങ്ങൾ വീണ്ടും കേസിലേക്ക് പോയാൽ അവർ ഒരു യൂണിറ്റിന് ആവശ്യമായ ഡയറക്റ്റ് ലേബർ നൽകിയിട്ടുണ്ട് അത് 4 4 3 5 ആണ് അവർ ഡയറക്റ്റ് ലേബർ മണിക്കൂർ നിരക്കും നൽകിയിട്ടുണ്ട് ഈ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ബഡ്ജറ്റ് തയ്യാറാക്കാം ഇപ്പോൾ ഓരോ യൂണിറ്റിനും ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് കണക്കാക്കുക അതിനാൽ അവർ 22000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു ഞങ്ങൾ അത് കണക്കാക്കി ഒരു യൂണിറ്റിന് നേരിട്ടുള്ള തൊഴിൽ സമയം 4 മണിക്കൂർ ആണ് നൽകിയിരിക്കുന്നത് ഈ ഡാറ്റയെ അടിസ്ഥാനമാക്കി 22 x 8 കണക്കാക്കുക അതായത് 88000 ആണ് ജനുവരിയിൽ ആവശ്യമായ മൊത്തം തൊഴിൽ സമയം അതുപോലെ ഫെബ്രുവരിയിലെ കണക്ക് എന്തായിരിക്കും ഞങ്ങൾ 20000 യൂണിറ്റുകൾ ഉത്പാദിപ്പിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് ഇതിനകം തന്നെ അറിയാം അതായത് ഫെബ്രുവരി മാസത്തിൽ നേരിട്ടുള്ള തൊഴിൽ സമയം 80000 ആണ് മാർച്ചിൽ എത്ര സമയം ഇത് 17 ആണ് ഇപ്പോൾ നിരക്ക് 3 5 ആയി മാറി അതായത് 59500 നിങ്ങൾക്ക് 3 മാസത്തെ മൊത്തം തുക എടുക്കാം അതായത് ഒരു ക്വാർട്ടർ 59 ആകെ 227500 ഇവിടെ ലേബർ മണിക്കൂർ നിരക്ക് വെയ്റ്റഡ് ആവറേജായി കണക്കാക്കുന്നു അത് 3 856 ആണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ 59000 ന് 227500 ഈ ക്വാർട്ടറിലെ ശരാശരി നിരക്ക് നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ അതേ രീതിയിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്ററ് ബജറ്റ് തയ്യാറാക്കാൻ ശ്രമിക്കുക അതിനാൽ വീണ്ടും ഉൽപ്പാദന യൂണിറ്റുകളിൽ നിന്ന് ആരംഭിക്കുക യൂണിറ്റ് കോസ്ററ് എടുക്കുക നിങ്ങൾക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്ററ് ബജറ്റ് ലഭിക്കും ഇത് വരെ വളരെ ലളിതമാണ് 22 x 10 നിങ്ങൾക്ക് 220000 ലഭിക്കും ഇതുപോലെ മറ്റ് മാസങ്ങളിൽ നിങ്ങൾക്കത് ഇപ്പോൾ തിരഞ്ഞെടുക്കാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു 20 x 10 17 x 10 അത് 200000 ഉം 170 ഉം പിന്നെ മുഴുവൻ ക്വാർട്ടറിലേക്കും 59000 x 10 അത് 590000 യൂണിറ്റിന്റെ വില തുല്യമാണ് അതേസമയം ജോലിയിൽ ഇത് മണിക്കൂർ നിരക്ക് കുറഞ്ഞുവരുന്നു ഇപ്പോൾ നിങ്ങൾ മറ്റെന്താണ് കണക്കാക്കേണ്ടത് വിൽപ്പന ബജറ്റ് കണക്കാക്കാനും അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിൽപ്പന യൂണിറ്റുകളെക്കുറിച്ച് ഞങ്ങൾക്ക് ഇതിനകം തന്നെ അറിയാം അതിനാൽ ഞങ്ങൾ വിൽപ്പന യൂണിറ്റുകൾ എടുത്ത് വിൽപ്പന വില കൊണ്ട് ഗുണിച്ചു 80 75 എന്നിങ്ങനെയുള്ള വിൽപ്പന വിലയാണ് അവർ ഇവിടെ നൽകിയിരിക്കുന്നത് അതിനാൽ വിൽപ്പന വില കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് മൊത്തം വിൽപ്പന ലഭിക്കും നിങ്ങൾക്കത് എന്റെ കൂടെ കിട്ടുമോ അതിനാൽ 1600000 1920000 1200000 4720000 ഇത് മൊത്തം വിൽപ്പന വരുമാനമാണ് ഇത് വിൽപ്പന ബജറ്റിൽ നൽകും ഇപ്പോൾ കേസിന്റെ ബി ഭാഗത്ത് ബഡ്ജറ്റ് ചെയ്ത സംഭാവന മാർജിൻ കണക്കാക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഞങ്ങൾക്ക് എല്ലാ ഡാറ്റയും അറിയാം വിൽപ്പന അറിയാം മെറ്റീരിയലും ജോലിയും പോലെയുള്ള വേരിയബിൾ ചെലവ് അറിയാം അതിനാൽ കോണ്ട്രിബൂഷൻ കണക്കാക്കുക നിങ്ങൾ ഘടന ഓർത്തിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ലേബർ കോസ്റ്റ് ഒരു യൂണിറ്റ് വിൽപ്പനയ്ക്കുള്ള മെറ്റീരിയൽ ചെലവ് എന്നിവ എടുക്കുക തുടർന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മാർജിൻ കണക്കാക്കാൻ കഴിയും ഒരു യൂണിറ്റിന്റെ വിൽപ്പന വില എത്രയാണ് ആദ്യ ക്വാർട്ടറിൽ ഇത് 80 മൈനസ് ലേബർ കോസ്റ്റ് അത് 60 ആണ് എന്ന് ലഭിക്കും ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ 60 ലഭിക്കും കാരണം ഇത് ഒരു യൂണിറ്റിന് 4 ലേബർ മണിക്കൂറും തൊഴിലാളികളുടെ നിരക്ക് 15 ഉം ആണ് അതിനാൽ ജനുവരിയിലെ ഡാറ്റ പരിശോധിക്കുക ഒരു യൂണിറ്റിന് നേരിട്ടുള്ള തൊഴിൽ സമയം 4 ഉം തൊഴിൽ നിരക്ക് 15 ഉം ആണ് അപ്പോൾ 4 x 15 അതായത് നേരിട്ടുള്ള തൊഴിൽ ചെലവ് 60 ആണ് യൂണിറ്റ് വിൽപ്പന യൂണിറ്റുകൾ ഇതിനകം നൽകിയിട്ടുണ്ട് അത് 20000 ആണ് വിൽപ്പന വരുമാനം അല്ലെങ്കിൽ യൂണിറ്റിന് വിൽപന വില 80 ആണ് തൊഴിൽ ചെലവ് കണക്കുകൂട്ടൽ പ്രകാരം 60 ആണ് മെറ്റീരിയൽ ചെലവ് ഇതിനകം 10 രൂപ നൽകിയിരുന്നു നിങ്ങൾക്ക് അത് മനസിലാകുന്നുണ്ടോ അപ്പോൾ ഇപ്പോൾ ഒരു സംഭാവന മാർജിൻ എത്രയാണ് 80 മൈനസ് 60 മൈനസ് 10 അതിനാൽ ഒരു യൂണിറ്റിന് സംഭാവന മാർജിൻ 10 ആണ് ഇപ്പോൾ മൊത്തം മാർജിനും ലഭിക്കും അതിനാൽ 20000 യൂണിറ്റുകൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതായത് 200000 ആണ് ടോട്ടൽ കോണ്ട്രിബൂഷൻ ഞങ്ങൾ ബജറ്റിംഗ് കമ്പനിയിലായതിനാൽ നിങ്ങൾ മൊത്തം കണക്കാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ മാർജിനൽ കോസ്റ്റിങ് അല്ലെങ്കിൽ ഒരു CVP കേസ് അതും അല്ലെങ്കിൽ ഒരു പ്രോബ്ലം പരിഹരിക്കുമ്പോൾ സാധാരണയായി ഓരോ യൂണിറ്റിനും കോസ്ററ് കണക്കാക്കേണ്ടതുണ്ട് ഇവിടെയും നിങ്ങൾക്ക് ഓരോ യൂണിറ്റിനും കണക്കാക്കുക എന്നിട്ട് മൊത്തത്തിൽ ഗുണിച്ചാൽ തുക കിട്ടും അങ്ങനെ കിട്ടുന്നതാണ് ഈ 200000 നിങ്ങൾക്ക് മനസിലാകുന്നുണ്ടോ ഇപ്പോൾ അതേ രീതിയിൽ ഫെബ്രുവരി ചെയ്യാൻ ശ്രമിക്കുക നേരിട്ടുള്ള തൊഴിൽ മണിക്കൂർ നിരക്ക് എത്രയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങിയാൽ മണിക്കൂർ നിരക്ക് ഡയറക്റ്റ് ലേബർ സെയിം ആണെന്നും യൂണിറ്റിന് നേരിട്ടുള്ള തൊഴിൽ സമയം 4 ആണെന്നും മണിക്കൂർ നിരക്ക് 15 ആണെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ നേരിട്ടുള്ള തൊഴിൽ ചെലവ് 20000 ആണ് അത് ഉൽപ്പാദിപ്പിക്കേണ്ട യൂണിറ്റുകളുടെ എണ്ണം 20000 ആണ് നേരിട്ടുള്ള തൊഴിൽ ചെലവ് 60 ആണ് വിൽപ്പന യൂണിറ്റുകളും 24000 ആണ് ക്ഷമിക്കണം ഉൽപ്പാദനം ഏറ്റെടുക്കരുത് ഇതൊരു സംഭാവനയാണ് അതിനാൽ ഇത് വിൽപ്പനയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വിൽപ്പന 24 ആണ് അതിനാൽ 24 എടുക്കുക ഒരു യൂണിറ്റിന് മാർജിൻ എത്രയാണ് യഥാർത്ഥത്തിൽ എല്ലാ ഡാറ്റയും 80 മൈനസ് 60 മൈനസ് 10 ആണ് അതിനാൽ ഒരു യൂണിറ്റിന് 10 ആണ് 24000 x 10 അത് 240000 ആയിരിക്കും അതിനാൽ ഫെബ്രുവരിയിലെ സംഭാവന മാർജിൻ 240000 ആണ് ഇപ്പോൾ മാർച്ച് മാസത്തേക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ ഉത്തരം അതെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു മാറ്റമുണ്ട് ഓരോ യൂണിറ്റിന്റെയും നേരിട്ടുള്ള തൊഴിൽ സമയം യഥാർത്ഥത്തിൽ 3 5 ആയി കുറഞ്ഞു ഇപ്പോൾ അതൊരു നല്ല ലക്ഷണമാണോ അതെ കാര്യക്ഷമത മെച്ചപ്പെട്ടു നേരത്തെ ഒരു യൂണിറ്റിന് 4 മണിക്കൂർ എടുത്തിരുന്നു ഇപ്പോൾ അവർ അത് കുറച്ച് വേഗത്തിൽ ചെയ്യുന്നു അതായത് യൂണിറ്റിന് 3 5 എന്നത് 16 കൊണ്ട് ഗുണിച്ചു കാരണം അവരുടെ നിരക്ക് വർദ്ധിച്ചു അവർ തൊഴിലാളികൾക്ക് 1 രൂപ അധികമായി നൽകി അതിനാൽ നമ്മൾ ഇവിടെ ഈ കണക്കുകൂട്ടൽ നടത്തുന്നു 3 5 x 16 കാണുക തൊഴിൽ ചെലവ് യഥാർത്ഥത്തിൽ 60 ൽ നിന്ന് 56 ആയി കുറഞ്ഞു അതിനാൽ തൊഴിലാളികൾക്ക് കൂടുതൽ ശമ്പളം ലഭിക്കുന്നു എന്നാൽ കമ്പനിയുടെ മെച്ചപ്പെട്ട കാര്യക്ഷമത കാരണം ചെലവ് കുറഞ്ഞു വിൽപ്പന യൂണിറ്റുകൾ യഥാർത്ഥത്തിൽ കുറവാണ് അവ 16000 മാത്രമാണ് സംഭാവന മാർജിൻ ചുരുങ്ങുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം വില 80 ൽ നിന്ന് 75 ആയി കുറഞ്ഞതാണ് പ്രധാന കാരണം തൊഴിൽ ചെലവ് മെച്ചപ്പെട്ട രീതിയിൽ ചെറുതായി നിയന്ത്രിക്കപ്പെടുന്നു അതിനാൽ ഇത് 56 മെറ്റീരിയലിന്റെ വില സമാനമാണ് അതിനാൽ സംഭാവന മാർജിൻ 9 16000 x 9 അത് മൊത്തം മാർജിൻ 144000 ആയിരിക്കും നിങ്ങൾക്ക് അത് മനസിലാകുന്നുണ്ടോ അതിനാൽ ഇവിടെ ഞങ്ങളോട് 4 ബജറ്റുകൾ തയ്യാറാക്കാനും ബജറ്റ് സംഭാവന മാർജിൻ കണക്കാക്കാനും ആവശ്യപ്പെട്ടു അതിനാൽ അത് നിങ്ങൾക്ക് വ്യക്തമാകുമെന്ന് ഞാൻ കരുതുന്നു ഇതെല്ലാം കണക്കു കൂട്ടി ഞാൻ ഇവിടെ തലക്കെട്ട് ചേർക്കുന്നു അതിനാൽ ഞങ്ങൾ ഇവിടെ നിർത്തുന്നു അടുത്ത സെഷനിൽ ക്യാഷ് ബജറ്റ് തയ്യാറാക്കുന്നത് സംബന്ധിച്ച ഒരു കേസ് ഞങ്ങൾ പരിഹരിക്കാൻ പോകുന്നു അതിനാൽ ക്യാഷ് ബജറ്റ് റിവൈസ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കും കാരണം ഇത് അൽപ്പം വലിയ കേസാണ് ഞങ്ങൾ അത് പരിഹരിക്കാൻ ശ്രമിക്കും ഇതോടെ ഞങ്ങൾ നിർത്താം നമസ്തേ നന്ദി